ഇതിനു മുൻപത്തെ രണ്ടു ക്ലാസ്സുകളിൽ തരംഗങ്ങൾ അഥവാ വേവ്സ് എന്താണെന്നും സ്ഥിര തരംഗങ്ങൾ അഥവാ സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ടാവുന്നതെങ്ങനെയെന്നും കമ്പനം ചെയ്തുകൊണ്ടിരിക്കുന്ന അഥവാ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിച്ചു കെട്ടിയ ഒരു ചരടിന്റെ സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെന്റ് ഐഗൻ ഫങ്ക്ഷൻ ഐഗൻ ഫ്രീക്വൻസി ഇവ ഉപയോഗിച്ച് എങ്ങനെ ആവിഷ്കരിക്കുമെന്നും നിങ്ങൾ കണ്ടു നമ്മൾ പാർട്ടിക്കിളിന് അതിനോടനുബന്ധിച്ചുള്ള ഒരു വേവ് തിയറി വികസിപ്പിച്ചെടുക്കാൻ പോകയാണ് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊരു ആമുഖം നിങ്ങൾക്ക് നൽകിയത് എന്തുകൊണ്ടാണ് പാർട്ടിക്കിളിന് വേവ് തിയറി ഉപയോഗിക്കുന്നത് കാരണം നമുക്കറിയാം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്കിളിനു അതിനോടനുബന്ധിച്ച് തരംഗങ്ങൾ ഉണ്ടെന്ന് ഇത്തരം തരംഗങ്ങളെ കുറിച്ച് ആദ്യം വിശദീകരിക്കാം ആദ്യം തന്നെ നമുക്ക് ഒരു കാര്യം മനസിലാക്കാം ഒരു ചലിക്കുന്ന പാർട്ടിക്കിളിനോട് ബന്ധപ്പെട്ട് തരംഗങ്ങളുണ്ട് ഇങ്ങനെ ചലിക്കുന്ന ഒരു പാർട്ടിക്കിളിനോട് ബന്ധപ്പെട്ട് ഉള്ള തരംഗങ്ങളെ ദ്രവ്യ തരംഗങ്ങൾ അഥവാ മാറ്റർ വേവ്സ് അല്ലെങ്കിൽ ദെ ബ്രോയി വേവ്സ് എന്ന് വിളിക്കുന്നു ഇത്തരം ദ്രവ്യ തരംഗങ്ങളുടെ തരംഗദൈർഘ്യം അഥവാ വേവ് ലെങ്ത് 𝜆 h p ആയിരിക്കും h എന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് Planck's constant p എന്നത് പാർട്ടിക്കിളിന്റെ മൊമെന്റം ആണ് ഞാൻ ഒരു ബോക്സ് വരച്ച് അടയാളപ്പെടുത്തിയിരിക്കുന്ന λhp എന്ന ഈ സമവാക്യം വളരെ പ്രധാനപ്പെട്ടതാണ് റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിളിനും നോൺ റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിളിനും ഇത് ഒരുപോലെ ശരിയായിരിക്കും ഈ സമവാക്യം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കാം നമുക്ക് മാസ്സ് m ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ ഉണ്ടെന്നിരിക്കട്ടെ ഈ പാർട്ടിക്കിൾ സ്പീഡ് v യിൽ സഞ്ചരിക്കുമ്പോൾ അതിന്റെ മൊമെന്റം p mv ആയിരിക്കും സ്പീഡ് v വളരെ വലുതാണെങ്കിൽ അതായത് റിലേറ്റിവിസ്റ്റിക് സ്പീഡ് ആയാൽ മൊമെന്റം ഇങ്ങനെ റിലേറ്റിവിസ്റ്റിക് സ്പീഡിൽ വസ്തു സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന മൊമെന്റ്റത്തിനെ റിലേറ്റിവിസ്റ്റിക് മൊമെന്റം എന്ന് പറയുന്നു ഈ ഫോർമുലയിൽ v വളരെ ചെറുതാകുമ്പോൾ അതായത് v c ആകുമ്പോൾ നോൺ റിലേറ്റിവിസ്റ്റിക് ഫോർമുലയായ p mv തന്നെ ലഭിക്കുന്നു λhp എന്ന ദെ ബ്രോയിയുടെ ഫോർമുലയിൽ റിലേറ്റിവിസ്റ്റിക് മൊമെന്റ്റത്തിന്റെ ഇക്വേഷൻ സബ്സ്റ്റിട്യൂട് ചെയ്താൽ എന്ന് ലഭിക്കും v c ആകുമ്പോൾ ഈ ഇക്വേഷൻ λhpഎന്ന നോൺ റിലേറ്റിവിസ്റ്റിക് ഫോർമുല തന്നെ ആകുന്നു ദെ ബ്രോയിയുടെ ഈ ആശയം മറ്റേതെങ്കിലും ഇക്വേഷനിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതല്ല ഇത് അടിസ്ഥാനപരമായുള്ള ഇക്വേഷൻ ആണ് അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്കിളിനോട് ചേർന്ന് വേവ് ലെങ്ത് λhp hmv ആയുള്ള മാറ്റർ വേവ് ഉണ്ടാകും അപ്പോൾ ഈ ഇക്വേഷൻ മറ്റേതെങ്കിലും ഇക്വേഷനിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഉറപ്പിച്ചു പറയാം ഈ ഇക്വേഷൻ ശരിയാണെന്നു സ്ഥാപിക്കാനുള്ള ഏക മാർഗം ഈ സമവാക്യം അഥവാ ഫോർമുല പരീക്ഷണത്തിലൂടെ തെളിയിക്കുക എന്നുള്ളതാണ് പരീക്ഷണത്തിലൂടെ നമുക്ക് ഫോർമുല നൽകുന്ന അതെ റിസൾട്ട് കിട്ടുന്നെങ്കിൽ ഈ സമവാക്യം ശരിയാണെന്നു ഉറപ്പിക്കാം ഈ സമവാക്യം സാധൂകരിക്കുന്നതിനായി ഏതൊക്കെ പരീക്ഷണങ്ങൾ നടത്താൻ പറ്റും എന്ന് ഈ ക്ലാസ്സിൽ ഞാൻ വിവരിക്കാം അതിനു മുൻപായി ദെ ബ്രോയി ഇങ്ങനെ ഒരു ഫോർമുല നിർദ്ദേശിക്കാനുള്ള ചരിത്ര പശ്ചാത്തലം കൂടി നമുക്ക് നോക്കാം ഇത് ഒരിക്കലും ഈ ഫോർമുല രൂപം കൊണ്ട വഴികളെക്കുറിച്ചല്ല മറിച്ച് ശാസ്ത്രജ്ഞർ എത്രയധികം ചിന്തിച്ചും പ്രവർത്തിച്ചുമാണ് ഇത്തരം ആശയങ്ങൾ നിർദ്ദേശിക്കുന്നതെന്നും പിന്നീട് അത് ഇക്വേഷനിലൂടെ വ്യക്തത വരുത്തി പരീക്ഷണത്തിന്റെ സഹായത്താൽ തെളിവ് നൽകി ഉറപ്പിച്ച് യഥാർത്ഥ ഫോർമുലയുടെ രൂപത്തിലെത്തിക്കുന്നതെന്നും മനസിലാക്കുവാനാണ് എക്സ്പെരിമെന്റിലൂടെ ശരിയാണെന്നു കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ദെ ബ്രോയി നിർദ്ദേശിച്ച ഫോർമുല അര്ഥമില്ലാത്തതാകും അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ ചരിത്ര പശ്ചാത്തലം നോക്കാം ദെ ബ്രോയി പറയുന്നതെന്തെന്നാൽ m ഭാരമുള്ള ഒരു പാർട്ടിക്കിളിന് ഐൻസ്റ്റൈൻ സമവാക്യമനുസരിച്ച് ഊർജം അഥവാ എനർജി E mc2 ഉം പ്ലാങ്ക്സ് ഫോർമുല അനുസരിച്ച് ഇന്റേണൽ ഫ്രീക്വൻസി 𝜈internal mc2h ഉം ഉണ്ട് അതായത് ദെ ബ്രോയി വളരെ വിദഗ്ദ്ധമായി പല പല ഫോർമുലകളിലൂടെ തന്റെ റിസൾട്ടിലേക്കെത്തിയതിന്റെ പശ്ചാത്തലമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്കറിയാം പാർട്ടിക്കിൾ v സ്പീഡിൽ ചലിക്കുമ്പോൾ റിലേറ്റിവിസ്റ്റിക് ഫോർമുല അനുസരിച്ച് അതിന്റെ എനർജി ആണെന്ന് അപ്പോൾ അപ്പോൾ പാർട്ടിക്കിൾ ചലിക്കുമ്പോൾ അതിന്റെ ഇന്റേണൽ ഫ്രീക്വൻസി കൂടുന്നുണ്ട് എന്നാൽ ഈ ചലിക്കുന്ന പാർട്ടിക്കിളിനെ ഒരാൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ടൈം ഡയലേഷൻ കാരണം ഇന്റേണൽ ക്ലോക്ക് സാവധാനമാവുകയും 𝜈 കുറയുകയും ചെയ്യുന്നു അപ്പോൾ പുറത്തുനിന്നു നിരീക്ഷിക്കുന്ന ഒരാൾക്ക് അനുഭവപ്പെടുന്ന ഫ്രീക്വൻസി ഇവിടെ ഫ്രീക്വൻസി കുറയുന്നതിന് കാരണം പുറത്തുനിന്നു നിരീക്ഷിക്കുമ്പോൾ ടൈം ഡയലേഷൻ കാരണം ഇന്റേണൽ ക്ലോക്ക് സാവധാനമാകുന്നതായി അനുഭവപ്പെടുന്നു എന്നതുകൊണ്ടാണ് അപ്പോൾ v സ്പീഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ പാർട്ടിക്കിളിന് തന്നെ ഇവിടെ രണ്ടു വ്യത്യസ്ത ഫ്രീക്വൻസികൾ അനുഭവപ്പെടുന്നു ഇതിനോട് എങ്ങനെ അനുരഞ്ജനപ്പെടും ഇതായിരുന്നു ഏറ്റവും വലിയ ആശങ്ക ഈ രണ്ടു ഫ്രീക്വൻസികളും അതായത് പാർട്ടിക്കിളിന്റെ ഇന്റേണൽ ഫ്രീക്വൻസി internal mc2h1 v2c2 ഉം പുറത്തുനിന്നും നിരീക്ഷിക്കുന്ന ഫ്രീക്വൻസി ഇതിനെ നമുക്ക് clock എന്ന് വിളിക്കാം clock mc21 v2c2h ഉം സ്വീകാര്യമാവണമെങ്കിൽ പാർട്ടിക്കിളിനോടനുബന്ധിച്ച് ഒരു വേവ് അഥവാ തരംഗം ഉണ്ടെന്നു സങ്കൽപ്പിക്കേണ്ടിവരും ഈ തരംഗത്തിന്റെ ഫ്രീക്വൻസി internal mc2h1 v2c2 ആയിരിക്കും ഈ തരംഗം എല്ലായ്പ്പോഴും clock മായി ഒരേ ഫേസിൽ ആയിരിക്കും മാത്രമല്ല ഈ തരംഗം എല്ലായ്പ്പോഴും പാർട്ടിക്കിളിനോടൊപ്പമായിരിക്കും ട്രാവെല്ലിങ് വേവിന്റെ ഫേസ് t xv ആണെന്ന് ഇതിനു മുൻപുള്ള ക്ലാസുകളിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ ഇത് 2πνt xvആണല്ലോ വേവിന്റെ ഈ ഫ്രീക്വൻസി internal ആണ് അതുകൊണ്ട് x എന്ന സ്ഥാനത്ത് t ടൈമിൽ വേവിന്റെ ഫേസ് 2πinternalt xv ആയിരിക്കും അപ്പോൾ ഇന്റേണൽ വേവിന്റെ ഫേസ് 2πinternalt xv ആയിരിക്കും ഇതുപോലെ clock ഫ്രീക്വൻസിയായുള്ള ക്ലോക്കിന്റെ ഫേസ് എന്തായിരിക്കും ക്ലോക്ക് പാർട്ടിക്കിളിനോടൊപ്പമാണുള്ളത് അതുകൊണ്ട് ടൈമിനനുസരിച്ചുള്ള ഇതിന്റെ ഫേസ് clock2πt ആയിരിക്കും അപ്പോൾ ദെ ബ്രോയിയുടെ വാദമനുസരിച്ച് ഈ രണ്ടു ഫേസും തുല്യമാവണം അപ്പോൾ ഇവിടെ 2π രണ്ടു വശത്തും ക്യാൻസൽ ചെയ്താൽ അതായത് 𝜈internal v 1 𝜆 അതുകൊണ്ട് ഇവിടെ x vt ആണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്നു തോന്നിയേക്കാം കാരണം നേരത്തെതന്നെ 2πinternalt xv എന്ന പദത്തിൽ x vt എന്ന് സബ്സ്റ്റിട്യൂട് ചെയ്തിരുന്നെങ്കിൽ v ക്യാൻസൽ ചെയ്തു പോകുമായിരുന്നു പക്ഷെ ഇവിടെ ഒരു കാര്യം ഓർക്കാനുള്ളത് 2πinternalt xv എന്ന പദത്തിലെ v യഥാർത്ഥത്തിൽ മാറ്റർ വേവിന്റെ സ്പീഡ് vwave ആണ് എന്നാൽ x vt എന്ന പദത്തിലെ v പാർട്ടിക്കിളിന്റെ സ്പീഡ് ആണ് അപ്പോൾ നേരത്തെ തന്നെ x vt എന്ന് സബ്സ്റ്റിട്യൂട് ചെയ്തിരുന്നെങ്കിലും നിങ്ങൾക്ക് എന്ന് കിട്ടുമായിരുന്നു നമുക്ക് അങ്ങനെയും ചെയ്തുനോക്കാം 2𝜋 ക്യാൻസൽ ചെയ്താൽ അതായത് 𝜈internal vwave 1 𝜆wave അപ്പോൾ t ക്യാൻസൽ ചെയ്യാം ഇതിൽ internal നു സബ്സ്റ്റിട്യൂട് ചെയ്താൽ ഇത് ഒന്നുകൂടെ മാറ്റി എഴുതിയാൽ ഇതിൽ നിന്നും ഇതുതന്നെയാണ് ദെ ബ്രോയിയുടെ ഫോർമുലയും ഇവിടെ ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ചു പറയുകയാണ് ഇത് ഈ രീതിയിൽ മറ്റു സമവാക്യങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഫോർമുല അല്ല എന്നുള്ള കാര്യം ഏതെങ്കിലും പരീക്ഷണം മുഖേന തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ ദെ ബ്രോയിയുടെ ഈ ഫോർമുല തെറ്റാണെന്നു വിലയിരുത്തപ്പെടും അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ തീസിസ് ഡിഫെൻസ് സമയത്ത് ഉന്നയിക്കപ്പെട്ട ചോദ്യം ഈ ഭ്രാന്തൻ തിയറിയുടെ വിശ്വാസ്യത എങ്ങനെ തെളിയിക്കുമെന്നു തന്നെ ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഒരു ഡിഫ്റാക്ഷൻ എക്സ്പെരിമെന്റിലൂടെ ഇത് തെളിയിക്കാമെന്നായിരുന്നു അത്തരം എക്സ്പെരിമെന്റിലൂടെ കിട്ടുന്ന ദെ ബ്രോയിയുടെ ഫോർമുല പ്രകാരം കിട്ടുന്നത് തന്നെ ആണെങ്കിൽ ഈ ഫോർമുല ശരിയാണെന്നു പറയാം അന്നത്തെ കാലഘട്ടത്തിൽ ലഭ്യമായിരുന്ന സൌകര്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യാവുന്ന പരീക്ഷണം എക്സ്റേ ഡിഫ്റാക്ഷൻ ആയിരുന്നു ഇവിടെ ഡിഫ്റാക്ഷൻ എന്ന വാക്ക് വളരെ പ്രധാനമാണ് കാരണം ദെ ബ്രോയി അവകാശപ്പെടുന്നതുപോലെ പാർട്ടിക്കിളിനോടനുബന്ധിച്ച് വേവ് ഉണ്ടെങ്കിൽ വേവിന്റെ വളരെ സവിശേഷ സ്വഭാവമായ ഇന്റർഫെറെൻസ് അല്ലെങ്കിൽ ഡിഫ്റാക്ഷൻ ഇത്തരം വേവ് പ്രകടിപ്പിക്കും അപ്പോൾ ഇവിടെ ഇന്റർഫെറെൻസ് അല്ലെങ്കിൽ ഡിഫ്റാക്ഷൻ കാണിക്കാൻ സാധിച്ചാൽ ദെ ബ്രോയിയുടെ തിയറി ശരിയാണെന്ന് തെളിയും അതാണ് ഡേവിസൺ ജർമെർ എക്സ്പെരിമെന്റും തോംസൺസ് Thompson's എക്സ്പെരിമെന്റും എക്സ്റേ ഡിഫ്റാക്ഷൻ നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം ഇവിടെ നമുക്ക് ബ്രാഗ്ഗ്സ് ഫോർമുല എങ്ങനെ ലഭിക്കും എന്ന് കൂടി കാണാം ഇതിനായി നമ്മൾ ഒരു ക്രിസ്റ്റലിലെ രണ്ടു പാളികൾ അഥവാ ലേയറുകൾ സങ്കല്പിക്കാം നിങ്ങൾക്കറിയാം ഒരു ക്രിസ്റ്റലിൽ ആറ്റങ്ങൾ വളരെ അടുക്കും ചിട്ടയിലുമാണ് വിന്യസിച്ചിരിക്കുന്നതെന്ന് d ദൂരത്തിൽ സ്ഥിതിചെയ്യുന്ന ഇത്തരം രണ്ടു പാളികളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എക്സ്റേ ബീം ക്രിസ്റ്റൽ പ്രതലത്തിൽ പതിച്ച് പുറത്തേക്കു പോകുന്നുണ്ടെന്നു കരുതുക അപ്പോൾ ക്രിസ്റ്റൽ പ്രതലവുമായി θ ആംഗിൾ വരുന്ന ദിശയിൽ ധാരാളം ഇന്റർഫെറെൻസ് നടക്കുന്നതായും ധാരാളം ഇന്റർഫെറെൻസ് പീക്ക് ലഭിക്കുന്നതായും കാണാം മറ്റു ആംഗിളുകളിൽ ഇന്റർഫെറെൻസ് നടക്കുന്നില്ല ആറ്റങ്ങൾ കൊണ്ട് ഉണ്ടായിരിക്കുന്ന ഈ ക്രിസ്റ്റൽ പാളികൾ അതിൽ പതിക്കുന്ന എക്സ്റേയ്ക്ക് ഒരു മിറർ പോലെ വർത്തിക്കുന്നു എന്നതാണ് ഈ പ്രതിഭാസത്തിനു നൽകപ്പെട്ട വിശദീകരണം അപ്പോൾ ക്രിസ്റ്റലിൽ പതിക്കുന്ന എക്സ്റേ ഇതിന്റെ മുകളിലും താഴെയുമുള്ള വിവിധ പാളികളിൽ നിന്നും റിഫ്ലക്ട് ചെയ്യപ്പെടുന്നു ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യപ്പെടുന്ന രശ്മികൾ തമ്മിലുള്ള ഫേസ് വ്യത്യാസം അല്ലെങ്കിൽ പാത വ്യത്യാസം തരംഗദൈർഘ്യത്തിന്റെ അഥവാ വേവ് ലെങ്ത് 𝜆 യുടെ പൂർണസംഖ്യ ഗുണകങ്ങൾ ആണെങ്കിൽ ഈ ദിശയിൽ ധാരാളം രശ്മികൾ റിഫ്ലക്ട് ചെയ്യപ്പെടുന്നു ലെയർ തമ്മിലുള്ള ദൂരം d രശ്മി പതിക്കുന്ന ആംഗിൾ ആണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഫോർമുല എന്താണെന്ന് നോക്കാം ഇവിടെ മുകളിലത്തെ ലെയറിൽ നിന്നും താഴേക്ക് ഒരു ലംബം വരച്ചാൽ ഈ പിങ്ക് നിറത്തിൽ മാർക്ക് ചെയ്ത രണ്ടു ആംഗിളുകളും ആയിരിക്കും അപ്പോൾ ഇവിടെ ഈ നീളം dSin മറ്റേ വശവും dSin ആയിരിക്കും അപ്പോൾ മുകളിലത്തെ ലേയറിൽ നിന്നും താഴത്തെ ലേയറിൽ നിന്നും റിഫ്ലക്ട് ചെയ്യപ്പെട്ട എക്സ്റേ തമ്മിലുള്ള ആകെ പാത വ്യത്യാസം 2dSinθ ആയിരിക്കും ബ്രാഗ്ഗ് മുന്നോട്ടു വെച്ച ആശയമനുസരിച്ച് ഈ പാത വ്യത്യാസം 2dSinθ 𝜆 2𝜆 n𝜆 അഥവാ 𝜆 യുടെ പൂർണസംഖ്യ ഗുണകങ്ങൾ ആണെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫെറെൻസ് ഉണ്ടാകുന്നു അതായത് ഈ ഒരു ആംഗിളിൽ ധാരാളം എക്സ്റേ റിഫ്ലക്ട് ചെയ്യപ്പെടുന്നതായി കാണാം മറ്റേതു ആംഗിളിലും ഇത്രയും റിഫ്ലക്ഷൻ ഉണ്ടാവില്ല ഇതാണ് ബ്രാഗ്ഗ് മുന്നോട്ടു വെച്ച ഫോർമുല ഇലക്ട്രോണിന്റെ കാര്യത്തിലും നമുക്ക് ഇതേ രീതി അവലംബിക്കാം ഇവിടെ എന്താണ് ചെയ്യുന്നത് എക്സ്റേ പതിപ്പിച്ചതിനു പകരം നമ്മൾ ക്രിസ്റ്റലിന്റെ ഉപരിതലത്തിൽ ഇലക്ട്രോണുകൾ പതിപ്പിക്കുന്നു ഈ ഇലക്ട്രോണുകൾക്കനുബദ്ധമായുള്ള മാറ്റർ വേവ് ക്രിസ്റ്റലിന്റെ വിവിധ ലേയറിൽ തട്ടി റിഫ്ലക്ട് ചെയ്യപ്പെടുന്നു അപ്പോൾ നിങ്ങൾക്ക് ചില ആംഗിളിൽ മാത്രം പീക് കാണാവുന്നതാണ് ഇത് മാറ്റർ വേവിന്റെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫെറെൻസ് കാരണമുണ്ടായതാണ് അപ്പോൾ മാറ്റർ വേവ് എന്ന ആശയം ശരിയാണെങ്കിൽ d നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ബ്രാഗ്ഗ് ഫോർമുല അനുസരിച്ച് θ ആംഗിളിൽ കൂടുതൽ റിഫ്ലക്ഷൻ കാണാൻ സാധിക്കും അതായത് ഇത് എക്സ്പെരിമെന്റിലൂടെ തെളിയിക്കപ്പെട്ടതാണ് അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കിളിനോടനുബന്ധിച്ച് വേവ് ലെങ്ത് deBroglie ആയുള്ള മാറ്റർ വേവ് ഉണ്ടെന്നും അതുകൊണ്ടുതന്നെ എക്സ്റേ ക്രിസ്റ്റലിൽ നിന്നും ഡിഫ്റാക്ഷൻ നടത്തപ്പെടുമ്പോൾ ഉണ്ടാക്കുന്ന അതെ രീതിയിൽ ഉള്ള ഡിഫ്റാക്ഷൻ പാറ്റേൺ ഇലക്ട്രോണുകളും ഉണ്ടാക്കുന്നു എന്നുമാണ് ഈ എക്സ്പെരിമെന്റ് വളരെ മുൻപ് അതായത് 1930 കളിൽ നടത്തിയതാണ് ഇതുപോലെ മോഡേൺ എക്സ്പെരിമെന്റുകളും ഉണ്ട് ഉദാഹരണമായി 12th ഗ്രേഡിൽ ലൈറ്റിന്റെ തരംഗ സ്വഭാവം തെളിയിക്കുന്ന യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് Young's double slit experiment പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ഇലക്ട്രോൺ ഉപയോഗിച്ചും ഈ എക്സ്പെരിമെന്റ് ചെയ്യാവുന്നതാണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ ചെയ്തതുപോലെ ഇവിടെ ഡബിൾ സ്ലിറ്റ് ഒരുക്കി ഇലക്ട്രോണിനെ അതിലൂടെ കടത്തിവിട്ട് ഫ്രിൻജ് പാറ്റേൺ നിരീക്ഷിക്കാൻ സാധിക്കുമോ നമുക്കറിയാം ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്ലിറ്റ് തമ്മിലുള്ള ദൂരം അല്ലെങ്കിൽ വിടവ് ഏറ്റവും ചെറുതാകുന്ന വിധത്തിൽ വളരെ ചെറിയ സ്ലിറ്റ് ഉണ്ടാക്കാമെന്നും ഇതുപയോഗിച്ച് ഇലക്ട്രോണിന്റെ അനുബന്ധ വേവിന്റെ വേവ് ലെങ്ത് deBroglie ആണെന്ന് തെളിയിക്കാമെന്നും ഇത്തരത്തിലുള്ള വളരെ ശ്രദ്ധിക്കപ്പെട്ട മൂന്നാമത്തെ എക്സ്പെരിമെന്റാണ് ഡിറാക് കപിറ്റ്സ നിർദ്ദേശിച്ച എക്സ്പെരിമെന്റ് 1990 കളിലും പിന്നീടും ഈ പരീക്ഷണം നടത്തിയിട്ടുണ്ട് ഇതിനായി വളരെ തീവ്രത അഥവാ ഇന്റൻസിറ്റി കൂടിയ ലൈറ്റ് ആവശ്യമാണ് പോൾ ഡിറാക് പീറ്റർ കപിറ്റ്സ എന്നീ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായമനുസരിച്ച് എക്സ്റേയെ മാറ്റർ ആയ ക്രിസ്റ്റൽ ഉപയോഗിച്ച് ഡിഫ്റാക്ട് ചെയ്യിക്കാൻ പറ്റുമെങ്കിൽ മാറ്റർ ആയ ഇലക്ട്രോണിനോടനുബന്ധിച്ചുള്ള വേവിനെ ലൈറ്റിന്റെ സ്റ്റാന്റിംഗ് വേവ് ഉപയോഗിച്ച് ഡിഫ്റാക്ട് ചെയ്യാൻ സാധിക്കണം കാരണം ലൈറ്റിന്റെ സ്റ്റാന്റിംഗ് വേവിനും ക്രമാവർത്തനസ്വഭാവം അഥവാ പീരിയോഡിസിറ്റി ഉണ്ട് അപ്പോൾ ഇത് ഇലക്ട്രോണിനെ ഡിഫ്റാക്ട് ചെയ്യുന്ന ലൈറ്റ് ക്രിസ്റ്റൽ പോലെ വർത്തിക്കുന്നു ഈ രീതിയിലുള്ള എക്സ്പെരിമെന്റുകളും നടത്തപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇത്തരം ഒരു എക്സ്പെരിമെന്റ് യഥാർത്ഥത്തിൽ ചെയ്യുവാനായി ഇലക്ട്രോണിനെ ഡിഫ്റാക്ട് ചെയ്യാൻ പര്യാപ്തമായ ഉയർന്ന ഇന്റൻസിറ്റിയുള്ള ലേസർ കണ്ടുപിടിക്കുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നു ഈ എക്സ്പെരിമെന്റിനെക്കുറിച്ച് കൂടി വേഗം പറഞ്ഞു തീർക്കാം രണ്ടു മിററുകൾക്കിടയിൽ ലൈറ്റിന്റെ ഒരു സ്റ്റാന്റിംഗ് വേവ് സങ്കല്പിച്ചാൽ ഇതിൽ ഓരോ light2 കഴിയുമ്പോഴും വേവ് അവർത്തിക്കപ്പെടുന്നതായി കാണാം അപ്പോൾ ക്രിസ്റ്റലിൽ d എടുത്ത സ്ഥാനത്ത് ഇവിടെ light2 ആണ് വരുന്നത് അതായത് സ്റ്റാന്റിംഗ് വേവ് ഉപയോഗിച്ച് ഡിഫ്റാക്ഷൻ നടത്തുമ്പോൾ 2 d sinelectrons എന്നതിനു പകരം എന്ന് ലഭിക്കും ഇക്വേഷനിൽ 2 ക്യാൻസൽ ചെയ്യാം അപ്പോൾ അതായത് ഏതെങ്കിലും ഒരു നിശ്ചിത ആംഗിളിൽ ഈ ലൈറ്റ് ക്രിസ്റ്റലിൽ നിന്നും ധാരാളം ഇലക്ട്രോണുകൾ ഡിഫ്റാക്ട് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ഇവിടെ അനുയോജ്യമാണെന്നർത്ഥം ലൈറ്റ് ക്രിസ്റ്റലിന്റെ പല പല പാളികൾ ഇങ്ങനെ കാണിക്കാം ആംഗിൾ θ ഞാനിവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് നേരത്തെ ലഭിച്ച ഫോർമുല നമുക്ക് ക്ലാസിക്കൽ തിയറി ഉപയോഗിച്ചും കാണാം എന്നാൽ ഇലക്ട്രോണിന്റെ തരംഗ സ്വഭാവം മുൻനിർത്തി ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ ഇവയൊക്കെയാണ് ദ്രവ്യത്തിന്റെ തരംഗസ്വഭാവം മനസിലാക്കാനുള്ള പരീക്ഷണങ്ങൾ ഞാനിവിടെ ഇന്റർഫെറെൻസ് എന്ന പ്രതിഭാസം അടിസ്ഥാനമാക്കിയുള്ള ഡേവിസൺ ജർമെർ എക്സ്പെരിമെന്റ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്നിവ വിശദീകരിച്ചു അതുപോലെതന്നെ വളരെ തീവ്രത കൂടിയ ലേസർ ഉപയോഗിച്ച് ചെയ്യേണ്ട കപിറ്റ്സ ഡിറാക് എക്സ്പെരിമെന്റും നമ്മൾ ചർച്ച ചെയ്തു അപ്പോൾ ഇതൊക്കെയാണ് ഇലക്ട്രോണിന്റെ deBroglie ശരിയാണെന്നുറപ്പിക്കാനുള്ള പരീക്ഷണങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ ഇലക്ട്രോൺ ഡിഫ്റാക്ഷനെ കുറിച്ച് തന്നെ പറയാൻ കാരണമെന്ന് നിങ്ങൾ ചിലപ്പോൾ അത്ഭുതപ്പെടുന്നുണ്ടാവാം ഇതിനു കാരണം electrons hmelectronv എന്നത് ഭാരമുള്ള മറ്റു വസ്തുക്കളുടെ വേവ് ലെങ്ത് അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും വേവ് ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ഡിഫ്റാക്ഷൻ അല്ലെങ്കിൽ ഇന്റർഫെറെൻസ് കിട്ടാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് ഇലക്ട്രോൺ തന്നെയെടുത്തത് ഇവിടെ മറ്റൊരു കാര്യം പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു ക്രിസ്റ്റലിൽ നിന്നുള്ള ഇലക്ട്രോൺ ഡിഫ്റാക്ഷൻ നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇലക്ട്രോണിന് അനുബന്ധമായുള്ള വേവ് തമ്മിലാണ് ഇന്റർഫെറെൻസ് നടക്കുന്നത് അതായത് ഒര് ഇലക്ട്രോണിനോടനുബന്ധിച്ചുള്ള വേവ് അതുമായി തന്നെ ഇന്റർഫെറെൻസിലേർപ്പെടുന്നു അല്ലാതെ ഒര് ഇലക്ട്രോൺ മറ്റൊരു ഇലക്ട്രോണുമായി ഇന്റർഫെറെൻസിലേർപ്പെടുകയല്ല ഓരോ ഇലക്ട്രോണിനോടും അനുബന്ധമായുള്ള വേവ് അതുമായി തന്നെ ഇന്റർഫെറെൻസ് ഉണ്ടാക്കുന്നു ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിലും ഇലക്ട്രോൺ വേവ് അതുമായി തന്നെ ഇന്റർഫെറെൻസ് ഉണ്ടാക്കുകയാണ് ഇലക്ട്രോൺ അതുമായി തന്നെ ഇന്റർഫെറെൻസ് ഉണ്ടാക്കുന്നത് പോലെയാണിത് ഇങ്ങനെ ആലോചിക്കുമ്പോൾ അല്പം അനൌചിത്യം തോന്നാം ഈ സന്ദർഭത്തിൽ എനിക്കാകെ പറയാനുള്ളത് ക്വാണ്ടം മെക്കാനിക്സിന്റെ ലോകത്തിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് മാത്രമാണ് ഞാനിവിടെ കല്പിച്ചുകൂട്ടിത്തന്നെ യെങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിന്റെ ഫോർമുല ലഭിക്കുന്ന വിധം കാണിച്ചിട്ടില്ല കാരണം നിങ്ങൾ ഇത് 12th ഗ്രേഡ് ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട് ആകെയുള്ള വ്യത്യാസം ഇവിടെ ലൈറ്റിന് പകരം നിങ്ങൾ ഇലക്ട്രോൺ വേവിന്റെ ഇന്റർഫെറെൻസ് ആണ് ഉണ്ടാക്കുന്നത് എന്നതാണ് ഇത്രയുമാണ് മാറ്റർ വേവിനെക്കുറിച്ചുള്ള ഒരു ചെറിയ മുഖവുര ഇവിടെ നമ്മൾ മാറ്റർ വേവിന്റെ വേവ് ലെങ്ത് എങ്ങനെ മൊമെന്റം ഉപയോഗിച്ച് കാണിക്കാൻ സാധിക്കും ഇതിന്റെ വേവ് ലെങ്ത് എങ്ങനെ എക്സ്പെരിമെന്റിലൂടെ കണ്ടുപിടിച്ച് ദെ ബ്രോയി മുന്നോട്ടു വെച്ച സിദ്ധാന്തം സമർത്ഥിക്കാം എന്നൊക്കെ കണ്ടുകഴിഞ്ഞു അടുത്ത ക്ലാസിൽ നമ്മൾ ദെ ബ്രോയി വേവ് ഉപയോഗിച്ച് ഷ്രോഡിൻജർ ഇക്വേഷൻ Schrödinger equation എന്നറിയപ്പെടുന്ന വേവ് ഇക്വേഷൻ എങ്ങനെ വികസിപ്പിച്ചെടുക്കുമെന്നും അത് പ്രായോഗിക തലത്തിൽ എങ്ങനെ ഉപയോഗിക്കുമെന്നും നോക്കാം അതായത് ഷ്രോഡിൻജർ ക്വാണ്ടം മെക്കാനിക്സ് വിശദമായി നോക്കാം